ഈ പ്രത്യേക പ്രഭാഷണത്തിൽ IIoT അനലിറ്റിക്സിനായി ഉപയോഗിക്കാവുന്ന രണ്ട് ഉപകരണങ്ങൾ പ്ലാറ്റ്ഫോമുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാൻ പോകുന്നു ഇവയിലൊന്ന് ആർ എന്നറിയപ്പെടുന്നു വിവിധ പ്ലാറ്റ്ഫോമുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു സമഗ്രമായ ഉപകരണം വാഗ്ദാനം ചെയ്യുന്ന ആർ ടൂൾ നടപ്പിലാക്കുന്നതിന് അതിന്റേതായ ഭാഷയുണ്ട് അതിനാൽ R അടിസ്ഥാനപരമായി വിശകലനത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അതിനാൽ ആർ ജൂലിയ എന്നറിയപ്പെടുന്ന മറ്റൊരു ഭാഷ ഈ വിശകലന പരിഹാരങ്ങൾ നടപ്പിലാക്കാൻ ഉപയോഗിക്കാവുന്ന വളരെ പ്രശസ്തമായ ഒരു ഉയർന്ന ഭാഷ കൂടിയാണ് ജൂലിയ അതിനാൽ ആർഐയും ജൂലിയയും IIoT അനലിറ്റിക്സ് സാഹചര്യങ്ങളിലും അവ നടപ്പിലാക്കുന്നതിലും വളരെ ജനപ്രിയമാണ് അതിനാൽ നമുക്ക് ആദ്യം R എന്താണ് R R പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം അതിനാൽ ആർ ഇത് ഒരു ഉപകരണമാണ് പ്രോഗ്രാമിംഗിന്റെ വ്യത്യസ്ത സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഉപകരണമാണ് ആർ അതിനാൽ ഇത് ഒരു പ്രോഗ്രാമിംഗ് ഭാഷ വാഗ്ദാനം ചെയ്യുന്നു ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലന പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നു ഇതിന് ഗ്രാഫിക്കൽ പ്രാതിനിധ്യ പ്ലാറ്റ്ഫോം ഡാറ്റ വിഷ്വലൈസേഷൻ ഓപ്പൺ സോഴ്സ് വ്യത്യസ്ത ഡാറ്റ വിശകലന സവിശേഷതകൾ എന്നിവയുണ്ട് അതിനാൽ ഇവയാണ് ആർ യുടെ വ്യത്യസ്ത സവിശേഷതകൾ R ലെ പ്രോഗ്രാമിംഗ് പരിസ്ഥിതി വ്യത്യസ്ത സവിശേഷതകളെ പിന്തുണയ്ക്കുന്നു അതിനാൽ അടിസ്ഥാന ആശയങ്ങൾ ഇങ്ങനെയാണ് R ൽ ചില സംവരണ പദങ്ങൾ ഉണ്ട് അവയുടെ ചില വേരിയബിളുകൾ R ൽ നിർവചിക്കാവുന്നതാണ് R ഓപ്പറേറ്റർമാർ R ഡാറ്റ തരങ്ങൾ ഇവ ഞാൻ ഉടൻ കാണിച്ചുതരാം ഇവ എന്തൊക്കെയാണ് ഇവയുടെയെല്ലാം ഒരു ലളിതമായ ഉദാഹരണം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാൻ പോകുന്നത് അതിനാൽ ഇവിടെ അടിസ്ഥാനപരമായി എല്ലാം ആർസ്റ്റുഡിയോയിൽ കാണിക്കും ആർസ്റ്റുഡിയോയ്ക്ക് അടിസ്ഥാനപരമായി ഈ R പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോമിന് പിന്തുണയുണ്ട് അതിനാൽ ആർസ്റ്റുഡിയോയിൽ ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു എന്നാൽ ആദ്യം നമുക്ക് മുന്നോട്ട് പോകാം ഇവ ആർ എന്ന പദങ്ങൾ റിസർവ് ചെയ്തിരിക്കുന്നുവെന്ന് നോക്കാം അതിനാൽ ചില പ്രത്യേക അർത്ഥമുള്ളതും ഒരു വേരിയബിൾ നാമമായി ഉപയോഗിക്കാൻ കഴിയാത്തതുമായ ഈ റിസർവ്ഡ് വാക്കുകളുണ്ട് ഉദാഹരണത്തിന് ഇത് സ്വയം സംവരണം ചെയ്തിരിക്കുന്നു അതിനാൽ നിങ്ങൾ റിസർവ് ചെയ്ത ചോദ്യചിഹ്നം ടൈപ്പ് ചെയ്താൽ അല്ലെങ്കിൽ അടിസ്ഥാന പരേസിസ് റിസർവ് ചെയ്തിരിക്കുന്നതിൽ നിങ്ങൾ അടിസ്ഥാനപരമായി ആർസ്റ്റുഡിയോ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് R ൽ പിന്തുണയ്ക്കുന്ന ഈ റിസർവ് ചെയ്ത വാക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഈ സംവരണ വാർഡുകൾ മറ്റെന്തെങ്കിലും പോലെയാണ് ആവർത്തിക്കുക അതേസമയം പ്രവർത്തിക്കുക കാരണം അടുത്തത് ഇടവേള ശരി തെറ്റ് തുടങ്ങിയവ അതിനാൽ ഇവ വ്യത്യസ്ത സംവരണ പദങ്ങളിൽ ചിലതാണ് അവയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ലഭ്യമാണ് അതിനാൽ നിങ്ങൾ ഈ റിസർവ് ആർസ്റ്റുഡിയോയിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും അപ്പോൾ എന്താണ് ഒരു വേരിയബിൾ വേരിയബിളുകൾ അടിസ്ഥാനപരമായി ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ഭാഷകളിലെ വേരിയബിളുകൾ പോലെയാണ് ഇവ അടിസ്ഥാനപരമായി ഞാൻ ചെയ്യേണ്ട പ്രഖ്യാപനങ്ങളാണ് ഇവയ്ക്ക് ചില മൂല്യങ്ങൾ നൽകപ്പെടും അതിനാൽ ഈ വേരിയബിളുകൾ ഉദാഹരണമായി പ്രഖ്യാപിക്കേണ്ടിവരും ഇവയാണ് ഈ വേരിയബിളുകളിൽ ചിലത് A ഒരു വേരിയബിൾ X ഒരു വേരിയബിൾ Y ഒരു വേരിയബിൾ ആണ് അതിനാൽ ഈ വേരിയബിളുകൾ അവർക്ക് വ്യത്യസ്ത മൂല്യങ്ങൾ നൽകാം ഉദാഹരണത്തിന് A 20 20 ന് തുല്യമായ മൂല്യമാണ് ഈ വേരിയബിൾ A യ്ക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ഹലോ എന്നത് ഒരു ചരട് ആണ് വേരിയബിൾ വൈ അതിനാൽ ഇവ വ്യത്യസ്ത തരം വേരിയബിളുകളാണ് അവ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആർസ്റ്റുഡിയോ പ്ലാറ്റ്ഫോമിൽ ഈ വേരിയബിളുകൾ എങ്ങനെ പ്രഖ്യാപിക്കാം അതിനാൽ ഇവ അടിസ്ഥാനപരമായി ഈ ആർ പ്രോഗ്രാമിംഗ് ഭാഷയുടെ അവശ്യ സവിശേഷതകളാണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഇത് ആർസ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത സ്ക്രീൻഷോട്ട് എടുത്ത സ്നാപ്പ് ഷോട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ നിങ്ങൾ 20 ന് തുല്യമായ ചില പ്രഖ്യാപനങ്ങൾ എങ്ങിനെ ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എ ഹലോ ആയി പ്രഖ്യാപിക്കുകയും നിങ്ങൾ എക്സ് പ്രിന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ മൂല്യം ലഭിക്കാൻ പോവുകയും ചെയ്യും ഫലം ഹലോ ആകും അപ്പോൾ യഥാർത്ഥ Y അടിസ്ഥാനപരമായി Y പ്രിന്റ് ചെയ്താൽ നിങ്ങൾ പോകുന്നു ഈ മൂല്യം സത്യമാകാൻ കാരണം ഈ വേരിയബിൾ Y യ്ക്ക് ഈ മൂല്യം ഉണ്ടായിരിക്കും കൂടാതെ ഈ ആർസ്റ്റുഡിയോ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാൻ പോകുന്ന വ്യത്യസ്തമായ ഒരു പാനൽ നിങ്ങൾക്ക് കാണാൻ കഴിയും A X Y എന്നീ വ്യത്യസ്ത വേരിയബിളുകളുടെ ഈ ആഗോള പരിസ്ഥിതി മൂല്യങ്ങളും അവയുടെ അനുബന്ധ മൂല്യങ്ങളും കാണിച്ചിരിക്കുന്നു അടുത്തതായി മറ്റ് വ്യത്യസ്ത കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഉദാഹരണത്തിന് R ലെ വ്യത്യസ്ത പാരാമീറ്ററുകൾ ക്ഷമിക്കണം ഓപ്പറേറ്റർമാർ ഗണിത ഓപ്പറേറ്റർമാർ പോലുള്ള വ്യത്യസ്ത ഓപ്പറേറ്റർമാർ സാധ്യമായ ഓപ്പറേറ്റർമാർ വ്യത്യസ്ത ഗണിത ഓപ്പറേറ്റർമാർ പോലുള്ള പ്ലസ് ഓപ്പറേറ്റർ ഇത് പ്ലസ് ചെയ്യും ഈ മൈനസ് കിഴിവ് ചെയ്യും തുടർന്ന് നക്ഷത്രം ഗുണനത്തിനാണ് സ്ലാഷ് വിഭജനത്തിനാണ് അപ്പോൾ ഈ തൊപ്പി അടിസ്ഥാനപരമായി പവർ x ലേക്ക് രണ്ടിനാണ് അതിനാൽ നിങ്ങൾ ഈ ശക്തി തൊപ്പിയുപയോഗിച്ച് ഉപയോഗിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇരട്ട ശതമാനം ഉണ്ട് അത് അടിസ്ഥാനപരമായി ഒരു ഡിവിഷന്റെ ശേഷിപ്പാണ് ഈ ശതമാനം സ്ലാഷ് ശതമാനം അടിസ്ഥാനപരമായി ഇത് സംഖ്യാ നിരയിൽ ഇടതുഭാഗത്തേക്ക് ഒരു മുഴുവൻ സംഖ്യയും ക്രമീകരിക്കുന്നതിന്റെ ഫലമാണ് അതിനാൽ R ൽ പിന്തുണയ്ക്കുന്ന ഈ വ്യത്യസ്ത ഗണിത ഓപ്പറേറ്ററുകളിൽ ചിലത് ഇവയാണ് ഇത് ആർസ്റ്റുഡിയോൽ നിന്ന് എടുത്ത ഒരു സ്ക്രീൻ ഷോട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഇത് നിങ്ങൾക്ക് വ്യത്യസ്ത ഗണിത ഓപ്പറേറ്റർമാർ 2 3 കാണിക്കും തുടർന്ന് നിങ്ങൾ എന്റർ അടിച്ചാൽ ഈ ഫലം 5 ശരിയാകും അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ പ്ലസ് ഓപ്പറേറ്ററുടെ സഹായത്തോടെ നിങ്ങൾ ഈ രണ്ട് വ്യത്യസ്ത ഓപ്പറേറ്റുകൾ ചേർക്കുന്നു നിങ്ങൾക്ക് ഈ ഫലം 5 ലഭിക്കുന്നു അതുപോലെ തന്നെ നക്ഷത്രം 2 മുതൽ 3 വരെ ഗുണനങ്ങളാണ് അതിനാൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും ഫ്ലോട്ടിംഗ് പോയിന്റിൽ 2 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ആർയിൽ പിന്തുണയ്ക്കുന്ന വ്യത്യസ്ത ഓപ്പറേറ്റർമാരാണ് ഇവ മറ്റ് ഓപ്പറേറ്റർമാർ അസൈൻമെന്റ് ഓപ്പറേറ്റർമാർ ഉണ്ട് ഓപ്പറേറ്റർമാർക്ക് തുല്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒപ്പിട്ട ഹൈഫനേക്കാൾ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇരട്ടി ഹൈഫനേക്കാളും വലുതാണ് അവയുടെ അനുബന്ധ ഉദ്ദേശ്യങ്ങളും ഇവിടെ പരാമർശിച്ചിരിക്കുന്നു അതിനാൽ ഇത് മുമ്പത്തെ സ്ലൈഡുകൾ പോലെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ തുല്യമായ മറ്റ് വ്യത്യസ്ത അസൈൻമെന്റ് ഓപ്പറേറ്റർമാരുടെ ഒരു ഉദാഹരണം പോലും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിനാൽ X ന് തുല്യമായ ഞാൻ നിങ്ങൾക്ക് ഈ X തുല്യമായ ഒരു ഉദാഹരണം നൽകും to 20 അടിസ്ഥാനപരമായി ഈ മൂല്യം 20 മുതൽ X വരെ നിയോഗിക്കുന്നു തുടർന്ന് നിങ്ങൾ X ന്റെ മൂല്യം പ്രിന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫലം 20 ആയി ലഭിക്കുന്നതായി കാണാം കൂടാതെ ഈ വ്യത്യസ്ത ഓപ്പറേറ്റർമാരുടെ ഉപയോഗവും ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് പോകാം അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസിലാക്കാൻ ശ്രമിക്കുക ഒരു റിലേഷണൽ ഓപ്പറേറ്റർമാരും സാധ്യമാണ് റിലേഷണൽ ഓപ്പറേറ്റർമാർ കുറവുള്ളതിനേക്കാൾ ഇരട്ടിക്ക് തുല്യമാണ് ഇത് തുല്യമല്ല തുടർന്ന് നിങ്ങൾക്ക് തുല്യമായതിനേക്കാൾ വലുത് തുല്യമായതിനേക്കാൾ കുറവാണ് കൂടാതെ അവയുടെ അനുബന്ധ ഉപയോഗവും ഉദാഹരണങ്ങളും ഇവിടെ നൽകിയിരിക്കുന്നു അതിനാൽ Y നേക്കാൾ വലുത് X X Y Z എന്നിവ ഈ വ്യത്യസ്ത മൂല്യങ്ങൾക്കനുസൃതമായി ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേരിയബിൾ വിൻഡോയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ അതിനാൽ നിങ്ങൾ Y നെക്കാൾ X എന്ന് എഴുതുകയാണെങ്കിൽ വ്യക്തമായും X Y നേക്കാൾ വലുതല്ല അതിനാൽ നിങ്ങൾക്ക് മൂല്യം തെറ്റായി ലഭിക്കും അതുപോലെ Y എന്നത് X സത്യത്തേക്കാൾ കുറവാണ് X തെറ്റായതിന് Y ഇരട്ട തുല്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഈ ആമ്പേഴ്സാൻഡ് പോലുള്ള ലോജിക്കൽ ഓപ്പറേറ്റർമാർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ലംബ ബാറും ഈ ആശ്ചര്യചിഹ്നവും ഉണ്ട് കൂടാതെ അനുബന്ധ അർത്ഥങ്ങളും ആമ്പേഴ്സാൻഡിന് മുകളിൽ നൽകിയിരിക്കുന്നു പിന്നെ ഇത് അല്ലെങ്കിൽ ഇത് അല്ല അതിനാൽ ഈ വേരിയബിളുകൾ ഈ മൂല്യങ്ങൾ മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ X തെറ്റായ Y സത്യമാണ് Z 4 എന്നിങ്ങനെയുള്ള മൂല്യങ്ങൾ മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യത്യസ്ത ഓപ്പറേറ്ററുകളെല്ലാം നിങ്ങൾ ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫലങ്ങൾ ലഭിക്കും മറ്റ് ഓപ്പറേറ്റർമാരുമായുള്ള മുമ്പത്തെ സ്ലൈഡുകളിലെന്നപോലെ ഇവിടെ കാണിച്ചിരിക്കുന്നു ചില പ്രത്യേക ഓപ്പറേറ്റർമാരുണ്ട് ഈ കോളുൻ അടിസ്ഥാനപരമായി ഒരു വെക്റ്ററിനായി ഒരു സംഖ്യകളുടെ ഒരു ശ്രേണി സൃഷ്ടിക്കുന്നു അപ്പോൾ ശതമാനം ഇൻ ശതമാനം ഒരു വെക്റ്ററിന്റെ ഒരു മൂലകം പരിശോധിക്കാൻ സഹായിക്കും അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഈ N ഉണ്ടെങ്കിൽ 10 ന്റെ ഒരു കൂട്ടം ഇതുപോലുള്ള വ്യത്യസ്ത സംഖ്യകൾ ഇങ്ങനെ നിർവ്വചിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ N പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അടിസ്ഥാനപരമായി ഈ പ്രത്യേക പട്ടിക 1 മുതൽ 10 വരെയാണ് കൂടാതെ ഈ മറ്റ് ഓപ്പറേറ്ററും അതിന്റെ അനുബന്ധ ഉദാഹരണവും ഇവിടെ കാണിച്ചിരിക്കുന്നു അതിനാൽ പിന്തുണയ്ക്കുന്ന വ്യത്യസ്ത ഡാറ്റ തരങ്ങളുണ്ട് എന്നാൽ ഈ ഡാറ്റ തരങ്ങൾ മനസിലാക്കുന്നതിനുമുമ്പ് ആർ പിന്തുണയ്ക്കുന്ന ഒബ്ജക്റ്റുകൾ ആർ ഒബ്ജക്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന വ്യത്യസ്ത വസ്തുക്കളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ വെക്റ്ററുകൾ ഉണ്ട് അത് ശരിയാണ് നിങ്ങൾ ക്ലാസ് V പ്രിന്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോജിക്കൽ ലഭിക്കും അതുപോലെ തന്നെ ഈ വ്യത്യസ്തമായവയ്ക്കും ഇത് ഇവിടെ നൽകിയിരിക്കുന്നു അപ്പോൾ എന്താണ് ഈ വ്യത്യസ്ത ആർ വസ്തുക്കൾ അതിനാൽ ഒന്ന് ഈ വെക്റ്റർ ആണ് അതിനാൽ വെക്റ്റർ അടിസ്ഥാനപരമായി ഒരു ഡൈമൻഷണൽ അറേ ശരിയാണ് അതിനർത്ഥം നിങ്ങൾ ഈ മാട്രിക്സ് നിരയായി നിർമ്മിക്കാൻ പോകുന്നു എന്നാണ് അതിനാൽ ഇത് ഒരു മാട്രിക്സ് മാത്രമാണ് ഞങ്ങൾ ഈ മാട്രിക്സ് നിർമ്മിക്കാൻ പോകുന്നത് 2 വരികൾ ഉണ്ടാകും ഇവയാണ് ഇവ 2 വ്യത്യസ്ത വരികളാണ് ഇതിന് ഇതുപോലെ 3 നിരകളുണ്ടാകും നിങ്ങൾ ഈ മാട്രിക്സ് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പോലെ a b c d e f ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ അറേകളുണ്ട് അറേകൾ അടിസ്ഥാനപരമായി മൾട്ടി ഡൈമൻഷണൽ തരത്തിലുള്ള അറേ ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു അതിനാൽ ഇത് ഒരു 3 ഡി 4 ഡി തരം അറേ പോലെയാണ് ഈ അറേകളുടെ സഹായത്തോടെ ഇത് നിർമ്മിക്കാൻ കഴിയും അതിനാൽ സി 3 3 2 പ്രിന്റ് എയ്ക്ക് തുല്യമായ ഹൈഫൻ അറേ സി ഗ്രീൻ മഞ്ഞ ഡൈമെൻഷനിൽ ഇത് എങ്ങനെ കുറവായിരിക്കും അതിനാൽ നിങ്ങൾ ഇത് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഒരു ഡൈമെൻഷൻ ഇത് രണ്ടാമത്തെ ഡൈമെൻഷൻ അതിനാൽ ഇത് ആദ്യത്തെ ഡൈമെൻഷൻ തുടർന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ഇത് രണ്ടാമത്തെ ഡൈമെൻഷൻ അനുബന്ധ മൂല്യങ്ങൾ പച്ച മഞ്ഞ പച്ച മഞ്ഞ പച്ച മഞ്ഞ പച്ച മഞ്ഞ പച്ച തുടങ്ങിയവ അതിനാൽ ഇത് പോലെ ഇത് ഒരു പാളിയാണ് ഇത് രണ്ടാമത്തെ പാളിയാണ് നിങ്ങൾക്ക് മൂന്നാമത്തേതും നാലാമത്തേതും ആകാം അതിനാൽ നിങ്ങൾക്ക് ഈ മെട്രിക്സുകളുടെ ഒന്നിലധികം പാളികൾ നിർമ്മിക്കാൻ കഴിയും കൂടാതെ ഇവിടെ അറിയപ്പെടുന്ന ഒരു മൾട്ടി ഡൈമൻഷണൽ അറേ നിങ്ങൾക്ക് ലഭിക്കും R ലെ അറേ പോലെ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് ഉണ്ട് ലിസ്റ്റ് അടിസ്ഥാനപരമായി ഈ രീതിയിൽ നിർമ്മിക്കാൻ കഴിയും അടിസ്ഥാനപരമായി ഞങ്ങൾ പരിഗണിച്ച മുൻ ശ്രേണികൾ മെട്രിക്സുകൾ ഏകതാനമായ തരമാണ് പട്ടികയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വൈവിധ്യമാർന്ന മൂല്യങ്ങൾ ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് പൂർണ്ണസംഖ്യയോടൊപ്പം ഒരു ഫ്ലോട്ടിംഗ് പോയിന്റും ഉണ്ടാകും അതിനാൽ ഇവയെല്ലാം ഒരു യൂണിറ്റിൽ നിർമ്മിക്കാൻ നിങ്ങൾ പോകുന്നു അതിനാൽ ഇത് R ലെ പട്ടിക എന്നറിയപ്പെടുന്നു അതിനാൽ വ്യത്യസ്ത മെഷീൻ ലേണിംഗ് പാക്കേജുകൾ ആർ പിന്തുണയ്ക്കുന്നു വ്യത്യസ്ത പാക്കേജുകൾ ക്രമരഹിതമായ വനം എന്ന് നമുക്ക് പറയാം ഒരു പാക്കേജ് ഉണ്ട് അടിസ്ഥാനപരമായി ഇത് നടപ്പിലാക്കുന്നത് ഒരു ലൈബ്രറിയാണ് ഇത് അടിസ്ഥാനപരമായി മെഷീൻ ലേണിംഗിന്റെ ഈ ക്രമരഹിതമായ വനം നടപ്പിലാക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നെറ്റ്വർക്ക് വിശകലനത്തിനുള്ള ഇഗ്രാഫ് പ്രവചന മോഡലുകൾ സൃഷ്ടിക്കുന്നതിന് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഉള്ളത് e1071 എന്നിവ ഒരു പാക്കേജോ ലൈബ്രറിയോ ആണ് അവ്യക്തമായ ക്ലസ്റ്ററിംഗ് svm പിന്നെ നല്ല Naive Bayes ക്ലാസിഫയർ മുതലായവ rpart എന്നത് റിഗ്രഷൻ മരങ്ങൾ നിർമ്മിക്കുന്നതിനാണ് nnet ഇത് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്കിനെയാണ് ഇതുപോലുള്ള നിരവധി വ്യത്യസ്ത പാക്കേജുകൾ ഉണ്ട് അതിനാൽ മെഷീൻ ലേണിംഗ് നടപ്പാക്കലിനായി നിങ്ങൾ എങ്ങനെയാണ് ഇവ നടപ്പിലാക്കുന്നത് അതിനാൽ ഇത് വീണ്ടും ഈ ആർസ്റ്റുഡിയോയുടെ ഒരു സ്നാപ്പ്ഷോട്ടാണ് അതിനാൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകാൻ പോകുന്നു അതിനാൽ ഇവിടെ ഞങ്ങൾ ഈ കാരറ്റ് ഉപയോഗിക്കാം ഇത് ഈ കാരറ്റ് പാക്കേജും അല്ലെങ്കിൽ ഈ ലൈബ്രറിയും ഇൻസ്റ്റാൾ ചെയ്യും ഇതിനകം നടപ്പിലാക്കിയ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ആ പ്രത്യേക പാക്കേജ് ലോഡുചെയ്യാൻ നിങ്ങൾ ഈ കമാൻഡാണ് ലൈബ്രറി കൺട്രോൾ തുടങ്ങിയ വ്യത്യസ്ത ഡാറ്റ സെറ്റുകളാണ് മുതലായവ ഇവിടെ നൽകിയിരിക്കുന്ന അനുബന്ധ മൂല്യങ്ങൾ ഈ പ്രത്യേക വിൻഡോയിൽ കാണിക്കുന്നു അതിനാൽ ഡാറ്റ ഐറിസ് അടിസ്ഥാനപരമായി ഈ ഐറിസ് ഡാറ്റാസെറ്റിൽ നിന്ന് ഡാറ്റ ലോഡ് ചെയ്യുകയും ഡാറ്റ സെറ്റിന്റെ പേരുമാറ്റുകയും ചെയ്യാം അതിനാൽ ഹൈഫൻ ഐറിസിനേക്കാൾ കുറഞ്ഞ ഡാറ്റ സെറ്റ് അടിസ്ഥാനപരമായി ഈ പ്രത്യേക ഡാറ്റ സെറ്റിനെ ഡാറ്റ സെറ്റായി പുനർനാമകരണം ചെയ്യും നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഈ ഡാറ്റ സെറ്റിനും ഐറിസിനും ഒരേ ഉള്ളടക്കമുണ്ടാകും അതിനാൽ ക്രോസ് മൂല്യനിർണ്ണയത്തിനായി നിങ്ങൾക്ക് വ്യത്യസ്തമായ മറ്റ് കമാൻഡുകൾ ഉണ്ട് കൃത്യത കണക്കാക്കുന്നതിനായി 10 മടങ്ങ് ക്രോസ് മൂല്യനിർണ്ണയം ഇവ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിശ്ചിത വെക്റ്റർ മെഷീനുകൾ പോലുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്ന വ്യത്യസ്ത കാര്യങ്ങളാണ് അതിനാൽ ക്രോസ് മൂല്യനിർണ്ണയത്തിനായി നിങ്ങൾ സിവിക്ക് തുല്യമായ നിയന്ത്രണ ട്രെയിൻ നിയന്ത്രണ രീതി 10 ന് തുല്യമായ സംഖ്യ മെട്രിക് കൃത്യത എന്നിവയാണ് ഈ കമാൻഡ് സപ്പോർട്ട് വെക്റ്റർ മെഷീൻ ഉപയോഗിക്കുന്നതിന് നിങ്ങൾ ആദ്യം വിത്ത് സജ്ജമാക്കുന്നു അതിനാൽ ഇത് ക്രമരഹിതമായ സംഖ്യ വിത്താണ് നിങ്ങൾ ആദ്യം സജ്ജീകരിച്ച വിത്ത് തുടർന്ന് അടിസ്ഥാനപരമായി ഒരു പ്രത്യേക ഡാറ്റ സെറ്റിൽ svm വിളിക്കാൻ ഡാറ്റ തുല്യ ഡാറ്റ സെറ്റ് ഉപയോഗിക്കപ്പെടുന്ന രീതികൾ എന്നിവയും നിങ്ങൾ ഈ പ്രത്യേക കമാൻഡ് ഉപയോഗിക്കുന്നുവെന്ന് വ്യക്തമാക്കി അതിനാൽ fit svm ഈ svm കമാൻഡ് ഈ പ്രത്യേക ഡാറ്റ സെറ്റിൽ svm നിർവ്വഹിക്കും ഡാറ്റ സെറ്റ് ഡാറ്റാ സെറ്റിന്റെ പേര് അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഈ ആർ സ്റ്റുഡിയോ പരിസ്ഥിതി പ്ലാറ്റ്ഫോമാണ് ഇവിടെ നിങ്ങൾക്ക് ഈ വ്യത്യസ്ത ഡാറ്റാ സെറ്റുകളും അവയുടെ അനുബന്ധ സവിശേഷതകളും ഈ പ്രത്യേക പാനലിൽ നൽകിയിട്ടുണ്ട് കൂടാതെ ഈ വ്യത്യസ്ത ലൈബ്രറികൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നിങ്ങൾ അടിസ്ഥാനപരമായി ഈ പ്രത്യേക ചെക്ക് ലിസ്റ്റിൽ നിന്ന് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ലൈബ്രറികൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ഇൻസ്റ്റാളേഷനായി ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ കമാൻഡ് കാരറ്റ് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യും അതിനാൽ install packages caret ഈ പ്രത്യേക കമാൻഡിലൂടെ ഈ കെയർ പാക്കേജ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യും അതിനാൽ ഡോട്ട് പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുക e1071 ഈ പാക്കേജ് e1071 ഇൻസ്റ്റാൾ ചെയ്യും അതിനാൽ ഇത് മറ്റൊരു പാക്കേജാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ e1071 സ്ഥിതിവിവരക്കണക്ക് പ്രോബബിലിറ്റി തിയറി മുതലായവയുടെ പ്രവർത്തനങ്ങളും ടി വീനിൽ നിന്ന് അടിസ്ഥാനപരമായി ഇൻസ്റ്റാൾ ചെയ്യപ്പെടും തുടർന്ന് നിങ്ങൾക്ക് ഈ ലൈബ്രറികൾ ഉൾപ്പെടുത്തണമെങ്കിൽ ഇവ ഉപയോഗിക്കേണ്ട കമാൻഡുകളാണ് അതിനാൽ ഈ ലൈബ്രറികൾ ലോഡുചെയ്യുന്നതിന് ഇത് അടിസ്ഥാനപരമായി നിങ്ങളെ സഹായിക്കും തുടർന്ന് ലൈബ്രറി പത്ത് e1071 ഈ ലൈബ്രറി ലോഡുചെയ്യും തുടർന്ന് ഡാറ്റ ഐറിസ് ഈ ഡാറ്റ ഐറിസ് അടിസ്ഥാനപരമായി ഈ പ്രത്യേക ഡാറ്റ സെറ്റ് ഇമ്പോർട്ടുചെയ്യും ഇത് ഈ ഡാറ്റ സെറ്റ് ഡാറ്റ സെറ്റിലേക്ക് പേരുമാറ്റാൻ പോകുന്നു svm ഉപയോഗിച്ച് നിങ്ങൾ ആ ഡാറ്റയിൽ സജ്ജമാക്കിയ ഡാറ്റ ഈ പ്രത്യേക രീതിയിൽ സജ്ജമാക്കുക അതിനാൽ ഡാറ്റസെറ്റ് എന്ന ഈ ഡാറ്റ സെറ്റിൽ svm എക്സിക്യൂട്ട് ചെയ്യുന്നതിനാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും അതിനാൽ വിശകലനത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്ന ആർ പ്ലാറ്റ്ഫോമിന്റെ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അനലിറ്റിക്സിന്റെ ഉയർന്ന തലത്തിലുള്ള അനലിറ്റിക്സ് പ്രോഗ്രാമിംഗിനായി ഉപയോഗിക്കുന്ന വളരെ പ്രശസ്തമായ പ്രോഗ്രാമിംഗ് ഭാഷയായ ജൂലിയ പ്രോഗ്രാമിംഗ് ഭാഷയെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഒരു നോട്ടം നേടാം പൈത്തണിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളും അതുവഴി കൈവരിച്ച പ്രകടനവും അടിസ്ഥാനമാക്കിയുള്ള ഒരു ജനപ്രിയ പ്രോഗ്രാമിംഗ് ഭാഷയാണ് ജൂലിയ അതിനാൽ പൈത്തൺ സി എന്നിവയിൽ നിന്നുള്ള ആനുകൂല്യങ്ങളുടെ സങ്കലനമായി നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്ന ഒരു സംയോജനമാണിത് അതിനാൽ ജൂലിയ ഒരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ഭാഷയാണ് ഇത് വിതരണം ചെയ്ത കണക്കുകൂട്ടലിനെയും സമാന്തരവാദത്തെയും പിന്തുണയ്ക്കുന്നു കൂടാതെ ജൂലിയ പിന്തുണയ്ക്കുന്ന ഫംഗ്ഷൻ കോളുകൾ പോലുള്ള വ്യത്യസ്ത സി ഉണ്ട് അതിനാൽ ഈ വ്യത്യസ്തമായ പൊതുവായ പ്രോഗ്രാമിംഗ് സവിശേഷതകളിൽ ചിലത് ഇവയാണ് ഒന്ന് ഈ println ആണ് അതിനാൽ ഈ println അച്ചടിക്ക് വേണ്ടിയാണ് അതിനാൽ ഇത് അച്ചടിക്ക് ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ println എന്ന് ടൈപ്പുചെയ്യുകയാണെങ്കിൽ ജൂലിയ പഠിക്കാൻ എനിക്ക് ആവേശമുണ്ട് അതിനുശേഷം നിങ്ങൾ എന്റർ അടിച്ചാൽ നിങ്ങൾക്ക് ജൂലിയ പഠിക്കാൻ ആവേശം തോന്നുന്നു അതിനാൽ ഇതാണ് ഉപയോഗം println നും അതിനു ശേഷം വ്യത്യസ്തമായ വേരിയബിളുകൾക്കും നിങ്ങൾക്ക് ഈ വ്യത്യസ്ത വേരിയബിളുകൾ ഈ രീതിയിൽ നിർവ്വചിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഈ പ്രത്യേക വേരിയബിൾ my answer 42 ന് തുല്യമാണ് my answer ടൈപ്പ് ചെയ്യുക തുടർന്ന് നിങ്ങൾ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ഔട്ട്ട്ട്പുട്ട് 64 ആയിരിക്കും അതിനാൽ ടൈപ്പ്ഓഫ് ഈ വേരിയബിളിന്റെ തരം പൂർണ്ണസംഖ്യയാണ് അതിനാൽ ഈ my answer ന്റെ തരം പൂർണ്ണസംഖ്യ 64 നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ my pi 3 14159 ന് തുല്യമാണ് തുടർന്ന് my pi ടൈപ്പ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് 14 അതിനാൽ ഈ കമാൻഡ് ടൈപ്പ്ഓഫിന്റെ വ്യത്യസ്ത ഔട്ട്ട്ട്പുട്ടുകൾ ഇവയാണ് ടൈപ്പ് ഓഫ് എന്നത് ഒരു പ്രത്യേക വേരിയബിളിന്റെ ആ തരം ലഭിക്കാനുള്ള അടിസ്ഥാന കമാൻഡാണ് ജൂലിയയിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഈ രീതിയിൽ വേരിയബിളുകളിലേക്കുള്ള മൂല്യങ്ങളുടെ അസൈൻമെന്റ് നടത്താവുന്നതാണ് അതിനാൽ 3 7 ന് തുല്യമായ അടിസ്ഥാന ഗണിത പ്രവർത്തനങ്ങൾ പിന്തുണയ്ക്കുന്നു അടിസ്ഥാനപരമായി ഇവിടെ നൽകിയിട്ടുള്ള രണ്ട് വ്യത്യസ്ത സംഖ്യകളുടെ ആകെത്തുക 3 7 10 10 3 ന് തുല്യമായ വ്യത്യാസം നിങ്ങൾക്ക് 7 നൽകും ഉൽപ്പന്നത്തിന് തുല്യമായ 20 x 5 നിങ്ങൾക്ക് 100 നൽകും 100 10 ന് തുല്യമായ അളവ് നിങ്ങൾക്ക് 10 0 നൽകും അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഫ്ലോട്ടിംഗ് പോയിന്റിലായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് 102 ന് തുല്യമായ പവർ ഉണ്ട് അതിനാൽ ഈ തൊപ്പി അടിസ്ഥാനപരമായി പവറിനുള്ളതാണ് അതിനാൽ 10 2 നിങ്ങൾക്ക് 100 നൽകും തുടർന്ന് മോഡുലസ് 101 2 നിങ്ങൾക്ക് ഈ മോഡ് മൂല്യം 1 നൽകും അതിനാൽ പിന്തുണയ്ക്കുന്ന മറ്റ് വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ് ഇവ സ്ട്രിംഗുകളുടെ നിയമനം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ രീതിയിൽ നിർവചിച്ചിരിക്കുന്ന ഒരു സ്ട്രിംഗ് ഉദ്ധരണി ചിഹ്നത്തിനുള്ളിൽ തുല്യമാണ് ഞാൻ ഒരു സ്ട്രിംഗ് ആണ് ഇത് അടിസ്ഥാനപരമായി ഈ സ്ട്രിംഗ് s1 സൃഷ്ടിക്കും തുടർന്ന് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഔട്ട്ട്ട്പുട്ട് ഞാൻ ഒരു സ്ട്രിംഗ് ആണ് അതിനാൽ സ്ട്രിംഗ് ഇന്റർപോളേഷനായി ഡോളർ ചിഹ്നം ഉപയോഗിക്കുന്നു അതിനാൽ ജെയ്ന് തുല്യമായ പേര് വിരലുകളുടെ എണ്ണം 10 ന് തുല്യമാണ് കാൽവിരലുകളുടെ എണ്ണം 10 ന് തുല്യമാണ് അപ്പോൾ ഔട്ട്ട്ട്പുട്ട് 10 ഇപ്പോൾ നിങ്ങൾ println എന്ന് ടൈപ്പ് ചെയ്താൽ ഹലോ എന്റെ പേര് ഡോളർ നാമമാണ് അപ്പോൾ ജെയിൻ എന്ന പേരിന്റെ മൂല്യം പോകുന്നു ഈ രീതിയിൽ അച്ചടിക്കാൻ അതിനാൽ അതുപോലെ തന്നെ അച്ചടിക്കുന്നതിൽ എനിക്ക് ഡോളർ സംഖ്യ വിരലുകളും ഡോളർ എണ്ണം കാൽവിരലുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡോളർ അടിസ്ഥാനപരമായി ഡോളർ നമ്പർ കണക്കുകൾ ഈ പ്രത്യേക വേരിയബിളിൽ സംഭരിച്ചിരിക്കുന്ന അനുബന്ധ മൂല്യം നൽകും അതിനാൽ ഈ പ്രത്യേക വേരിയബിളിനായി സംഭരിച്ചിരിക്കുന്ന ഈ പ്രത്യേക മൂല്യം ഡോളർ നമ്പർ കാൽവിരലുകൾ നിങ്ങൾക്ക് നൽകും അതിനാൽ നിങ്ങൾക്ക് ഈ പ്രത്യേക പ്രസ്താവന നടപ്പിലാക്കുകയാണെങ്കിൽ എനിക്ക് 10 വിരലുകളും 10 വിരലുകളുമാണ് അച്ചടിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ട്രിംഗ് കോൺകണേഷനുണ്ട് നിങ്ങൾക്ക് ഈ s3 പോലെ എത്രയോ പൂച്ചകൾ ഉപയോഗിക്കാനാകും ഒന്നിച്ചു ചേരാൻ പോകുന്നു അതിനാൽ നിങ്ങൾക്ക് ഈ സംയുക്ത സ്ട്രിംഗ് ലഭിക്കാൻ പോകുന്നു അതായത് എത്ര പൂച്ചകൾ വളരെയധികം പൂച്ചകളാണ് ജൂലിയയിൽ പിന്തുണയ്ക്കുന്ന വ്യത്യസ്ത ഡാറ്റാ ഘടനകളുണ്ട് അതിനാൽ ഇവയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിനാൽ അടിസ്ഥാനപരമായി ട്യൂപ്പിൾസ് അതിനാൽ നിങ്ങൾക്ക് ഈ ട്യൂപ്പിളുകൾ എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ പെൻഗ്വിനുകൾ പൂച്ചകൾ ഷുഗർഗ്ലൈഡറുകൾക്ക് തുല്യമായ എന്റെ പ്രിയപ്പെട്ട മൃഗങ്ങൾ ഇത് ഈ പ്രത്യേക ട്യൂപ്പിൾ സൃഷ്ടിക്കും അതിനാൽ നിങ്ങൾ ഈ കാര്യം നടപ്പിലാക്കുകയാണെങ്കിൽ ഔട്ട്ട്ട്പുട്ട് ആകും അതിനാൽ ഔട്ട്ട്ട്പുട്ട് പെൻഗ്വിനുകൾ പൂച്ചകൾ ഷുഗർലൈഡറുകൾ ആകും അതിനാൽ ഇതുപോലെ നിങ്ങൾക്ക് മറ്റ് തരത്തിലുള്ള ട്യൂപ്പുകളും നിർമ്മിക്കാൻ കഴിയും ഒരു നിഘണ്ടു സൃഷ്ടിക്കാൻ ഇത് ഉപയോഗിക്കേണ്ട കമാൻഡ് ആണ് അതിനാൽ എന്റെ ഫോൺബുക്ക് ഡിക്റ്റിന് തുല്യമാണ് ഈ പ്രത്യേക കമാൻഡ് ഈ നിഘണ്ടു സൃഷ്ടിക്കും അതിനാൽ ഈ വ്യത്യസ്ത വേരിയബിളുകൾക്കെതിരെ സംഭരിക്കാൻ പോകുന്ന ഈ വ്യത്യസ്ത മൂല്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുക അതിനാൽ ഇത് മൈഫോൺബുക്ക് എന്ന് പേരുള്ള ഈ പ്രത്യേക നിഘണ്ടു സൃഷ്ടിക്കും അതിനാൽ നിങ്ങൾ ഈ പ്രത്യേക മൈഫോൺബുക്ക് നിഘണ്ടു അച്ചടിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രത്യേക ഉദാഹരണം കാണിക്കണമെങ്കിൽ ഇത് ചെയ്യാനുള്ള വഴിയാണിത് ജൂലിയയിൽ അറേകൾ നിർമ്മിക്കുന്നതിനുള്ള ശ്രേണികൾ ഈ അറേ ഇനങ്ങളെല്ലാം ചതുരാകൃതിയിലുള്ള ബ്രാക്കറ്റുകളിൽ സ്ഥാപിക്കുന്ന സഹായത്തോടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനാകും അതിനാൽ ടെഡ് റോബിൻ ബാർണി ലില്ലി മാർഷൽ എന്നീ മൂലകങ്ങളുള്ള ഈ 5 ഘടകങ്ങളുടെ കൂട്ടുകാരെ ഇത് സൃഷ്ടിക്കും അതിനാൽ ഈ വ്യത്യസ്ത മൂലകങ്ങളുള്ള ഏഴ് ഘടകങ്ങളുള്ള ഫിബൊനാച്ചി അറേ ഇത് സൃഷ്ടിക്കും അതിനാൽ ഞങ്ങൾ ജൂലിയയുടെ അവസാനത്തിലേക്ക് വരുന്നു ഈ വ്യത്യസ്തമായ പരാമർശങ്ങളാണ് ഞാൻ അടിസ്ഥാനപരമായി ചെയ്തത് എന്താണ് R എന്താണ് ജൂലിയ ഈ ആർസ്റ്റുഡിയോ പ്ലാറ്റ്ഫോം എങ്ങനെയുണ്ട് എന്താണ് ഈ അടിസ്ഥാന ഓപ്പറേറ്റർമാർ എന്താണ് ജൂലിയയിലും മറ്റും പിന്തുണയ്ക്കുന്ന വ്യത്യസ്ത പ്രവർത്തനങ്ങൾ അതിനാൽ അവിടെയുള്ളതിന്റെ അടിസ്ഥാനപരമായ അരമണിക്കൂർ കാഴ്ചകൾ ഇവ മാത്രമാണ് ഈ പ്രത്യേക പ്രഭാഷണത്തിലൂടെ നിങ്ങൾ ആർ അല്ലെങ്കിൽ ജൂലിയയുടെ വിദഗ്ദ്ധരാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നിരുന്നാലും നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർ ജൂലിയ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവ് കൂടുതൽ വികസിപ്പിക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ ആർക്കും ജൂലിയയ്ക്കും വേണ്ടിയുള്ള വ്യത്യസ്ത ട്യൂട്ടോറിയലുകൾ എടുക്കണം നിങ്ങൾ മാസ്റ്ററാകണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഷകൾ എന്നാൽ IIoT ഒരു ഇൻഡസ്ട്രി 4 0 എന്ന കോഴ്സിന്റെ വീക്ഷണകോണിൽ നിന്ന് ഈ പ്രത്യേക പ്രഭാഷണത്തിലൂടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ പ്രത്യേക അറിവ് നിങ്ങൾക്ക് കുറഞ്ഞത് ആരംഭിക്കാൻ പര്യാപ്തമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നിങ്ങൾക്ക് ഈ താൽപ്പര്യമുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഈ വ്യത്യസ്ത റഫറൻസുകളിലൂടെ പോകാൻ കഴിയും